നമ്മൾ ഇപ്പോൾ ക്ലോസ്ഡ് ലൂപ്പിലെ ബക്ക് കൺവെർട്ടറിന്റെ സിമുലേഷൻ നോക്കാം നമ്മൾ എന്തുചെയ്യും മുമ്പത്തെപ്പോലെ ഈ ഫോൾഡറിലേക്ക് പോകും അവിടെ ഞാൻ ഇപ്പോൾ സ്കീമാറ്റിക് സൃഷ്ടിച്ചു ഞാൻ അതിനെ buck closed sch എന്ന് നാമകരണം ചെയ്യുന്നു ഞാൻ ഫയലിന്റെ കസ്റ്റം ഡോട്ടുകൾ അപ്ഡേറ്റുചെയ്തു ഒരു ബക്ക് ക്ലോസ്ഡ് ഡോട്ട് സർ ഉണ്ട് അതിലേക്ക് പിന്നീട് വരാം അതിനാൽ ഒരു ബക്ക് കൺവെർട്ടറിന്റെ ക്ലോസ് ലൂപ്പ് സ്കീമാറ്റിക് ആയ ഈ buck closed sch തുറക്കാം നിങ്ങൾക്ക് മറ്റേതെങ്കിലും കൺവെർട്ടറിനും ഇതേ സമീപനം ഉപയോഗിക്കാം ഞാൻ സൂം ഇൻ ചെയ്യട്ടെ നിങ്ങൾക്ക് ഈ ഭാഗം തിരിച്ചറിയാൻ കഴിയണം ഇത് DC സോഴ്സ് 12 വോൾട്ട് ആണെന്ന് നിങ്ങൾ കാണുന്നു ചില ഡ്യൂട്ടി സൈക്കിളിലൂടെ ഞങ്ങൾ നിയന്ത്രിക്കുന്ന പവർ സ്വിച്ചാണിത് നിങ്ങൾക്ക് ഓപ്പൺ ലൂപ്പ് സിമുലേഷനിൽ നമ്മൾ ഉപയോഗിച്ച ബക്ക് കൺവെർട്ടർ ഭാഗം l C എന്നിവയുണ്ട് ആ ട്രോൾ ചാർട്ടിൽ സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോഴോ സ്വിച്ച് ഓണായിരിക്കുമ്പോഴോ ഇൻഡക്റ്റർ ഫ്രീ വേവ് ചെയ്യും 5 വോൾട്ട് സ്റ്റാക്കിന്റെ ലോഡ് ഉള്ളതുമായ എനിക്ക് ഏകദേശം 1 ആംപ് കറന്റ് നൽകും ഇപ്പോൾ നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ ഇവിടെയുണ്ട് ആത്യന്തികമായി സ്വിച്ചിന്റെ ഗേറ്റ് ഡ്രൈവ് നിയന്ത്രിക്കാൻ പോകുന്ന നിയന്ത്രണ ഭാഗത്ത് ഉണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഓപ്പൺ ലൂപ്പിൽ തന്നെ PWM ഉൾപ്പെടുത്തിയിരുന്നു നമ്മൾ ഇവിടെ സ്ഥിരമായ വോൾട്ടേജ് നൽകിയിരുന്നു ഇപ്പോൾ സ്ഥിരമായ വോൾട്ടേജിനുപകരം നമുക്ക് ഇപ്പോൾ ഒരു കൺട്രോളർ കംപാറേറ്റർ ഫീഡ്ബാക്ക് എന്നിവയുണ്ട് ഇപ്പോൾ ഫീഡ്ബാക്ക് ഈ ലേബലിലൂടെ നൽകുന്നു സിദ്ധാന്തത്തിൽ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ ഇത് ഔട്ട്പുട്ടിലേക്ക് നേരിട്ട് ബന്ധിപ്പിച്ചതായി നിങ്ങൾ കാണുന്നു പക്ഷേ സ്കീമാറ്റിക് ക്ലാറ്റെർ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇവിടെ O എന്ന ലേബൽ നൽകിയിട്ടുണ്ടെന്നും അതേ ലേബൽ ഞാൻ പകർത്തി ഇവിടെ ഇട്ടാൽ ഈ രണ്ട് പോയിന്റുകൾക്കിടയിലും ഞാൻ ഒരു ഫിസിക്കൽ ബന്ധം സ്ഥാപിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് അതിനാൽ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പോയിന്റിലേക്ക് തിരികെ നൽകുന്നു ഡിഫറെൻസ് ആംപ്ലിഫൈർ പ്ലസ് ഉം അതിനോട് മൈനസ് പിന്നെ പ്ലസ് ഉം പിന്നെ ഒരു റഫറൻസ് വോൾട്ടേജ് നൽകുകയും ചെയ്യുന്നു നിങ്ങൾ ഇവിടെ കാണുന്ന റഫറൻസ് വോൾട്ടേജുകൾ സ്ഥിരമല്ല ഞാൻ ഒരുതരം പൾസ് ലോഡ് ഡിസ്റ്റർബൻസ് നൽകിയിട്ടുണ്ട് അതിനാൽ ഡിസ്റ്റർബൻസ് തീരുമാനിക്കാൻ ഔട്ട്പുട്ട് ഈ പൾസ് ട്രാക്കുചെയ്യുന്നത് നമ്മൾ കാണും എന്നിരുന്നാലും യഥാർത്ഥ പ്രയോഗത്തിൽ ഇത് സ്ഥിരമായ സെറ്റ് പോയിന്റ് മൂല്യമാണെന്ന് നിങ്ങൾ കാണും ഇപ്പോൾ സെറ്റ് പോയിന്റും റെഡ് ബക്ക് വോൾട്ടേജും തമ്മിലുള്ള വ്യത്യാസം എറർ PID കൺട്രോളറിലേക്ക് നൽകുന്നു കൂടാതെ PID കൺട്രോളറിന് ചില പാരാമീറ്ററുകൾ ഉണ്ട് Ki പാരാമീറ്റർ ഇന്റഗ്രേറ്ററിന് ഉണ്ട് പ്രോപ്രോഷണലിന് Kp പാരാമീറ്റർ ഡിഫറൻഷ്യലിനായി Kd ഞാൻ അത് ഉപയോഗിക്കുന്നില്ല ഞാൻ അത് 0 ആയി സജ്ജീകരിക്കുന്നു ഒരു Lsat ഉണ്ട് അതിൽ ഏറ്റവും കുറഞ്ഞ സാച്ചുറേഷൻ പരിധി മൈനസ് 10 ആയി സജ്ജീകരിച്ചിരിക്കുന്നു Usat മുകളിലെ സാച്ചുറേഷൻ പരിധി ഇത് പ്ലസ് 10 ആയി സജ്ജീകരിക്കുക അത് ഇപ്പോഴും താഴ്ന്ന മൂല്യങ്ങളിലേക്ക് സജ്ജീകരിക്കുന്നതിനും നിങ്ങൾക്ക് നിയന്ത്രണമുണ്ട് ഇപ്പോൾ ഈ ഔട്ട്പുട്ട് PWM ന് അന്തിമ ഫലമാണ് അത് ഉചിതമായ ഡ്യൂട്ടി സൈക്കിൾ പൾസ് സൃഷ്ടിക്കുകയും ഇവിടെയുള്ള പവർ സെമി കണ്ടക്ടർ സ്വിച്ചിലേക്ക് നൽകുകയും ചെയ്യും ഇപ്പോൾ ഇതാണ് ബക്ക് കൺവെർട്ടറിന്റെ ആകെ ക്ലോസ്ഡ് ലൂപ്പ് സർക്യൂട്ട് ഇതാണ് ക്ലോസ്ഡ് ലൂപ്പ് ഭാഗം വാസ്തവത്തിൽ ഇതാണ് ഈ പാരാമീറ്ററുകളുള്ള കൺട്രോളർ ഇനി നമ്മൾ സിമുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഈ ഫയലുകൾ എങ്ങനെ ഇൻപുട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം ഇതാണ് edt01 sub ന്റെ ഇൻക്ലൂഷൻ ഇപ്പോൾ നമ്മൾ സിമുലേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചേർത്ത സെറ്റിൽ ഇത് 1 ബ്ലോക്കാണ് നിങ്ങൾ ഇതുവരെ കാണാത്ത ഈ പുതിയ ബ്ലോക്ക് ഇത് നിങ്ങൾ ഇതുവരെ കാണാത്ത മറ്റൊരു ബ്ലോക്ക് ngSpice ന്റെ അനലോഗ് ബിഹേവിയറൽ മോഡൽ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ngSpice ന്റെ അനലോഗ് ബിഹേവിയറൽ മോഡൽ ഉപയോഗിച്ചാണ് PID നിർമ്മിച്ചിരിക്കുന്നത് edt 01 dot sub ൽ ആ ബ്ലോക്കിനുള്ള ആ മോഡൽ എങ്ങനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇപ്പോൾ ഈ രണ്ട് ബ്ലോക്കുകളും A ബ്ലോക്ക് ലൈബ്രറിയിൽ ലഭ്യമാണ് അതിനാൽ A ബ്ലോക്ക് ലൈബ്രറിയിൽ നിങ്ങൾ ആഡ് കാണുന്നു ഇതാണ് ചിഹ്നം അതാണ് നമ്മൾ വലിച്ച് അവിടെ സൂക്ഷിച്ചത് അത് തിരിച്ചറിയും അപ്പോൾ മറ്റൊരു ഫയൽ PID ആണ് ഇതാണ് PID ഇതാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് അതിനാൽ ലൈബ്രറിയുടെ A ബ്ലോക്ക് ഫോൾഡറിൽ ഇത് ലഭ്യമാണ് ഇനി നമുക്ക് ഇതെല്ലാം സേവ് ചെയ്യാം കൂടാതെ ഈ സ്കീമാറ്റിക് നമുക്ക് നന്നായി അറിയാവുന്ന പ്രോസസ്സ് ഉപയോഗിക്കാം ആദ്യം നമ്മൾ ആ ഡയറക്ടറിയിൽ പോയി നെറ്റ് ലിസ്റ്റ് സൃഷ്ടിക്കുന്നു അതിനാൽ ഇതാണ് നെറ്റ് ലിസ്റ്റ് കമാൻഡ് നിങ്ങൾ ഇത് തിരിച്ചറിയുകയും buck close sch ഉപയോഗിക്കുകയും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു buck close net ജനറേറ്റുചെയ്യുന്നു നമുക്ക് നെറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യാം നെറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്തതായി നിങ്ങൾ ഇവിടെ കാണും ഇപ്പോൾ നമുക്ക് പോയി ngSpice എൻവയോൺമെന്റ് ചെയ്ത് buck close cir വിളിക്കാം ഇപ്പോൾ cir ഇൽ എന്താണ് ഉള്ളത് സിർ എന്നത് ഒരു ഡ്രോപ്പ് ട്രാൻ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ മറ്റൊന്നുമല്ല

ഉൾപ്പെടുന്നു അതിനാൽ ngSpice ലേക്ക് പോയി റൺ കമാൻഡ് ചെയ്ത് സിമുലേഷൻ എക്സിക്യൂട്ട് ചെയ്യും ഇപ്പോൾ ഞാൻ കളർ 0 സമം വെളുപ്പ് സെറ്റ് കളർ ഫോർഗ്രൌണ്ട് ബ്ലാക്ക് ആയി സജ്ജീകരിക്കട്ടെ ഔട്ട്പുട്ട് റഫറൻസ് ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ റഫറൻസും ഔട്ട്പുട്ടും പ്ലോട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ R ഔട്ട്പുട്ട് O എന്നിവ ഇടാം ചുവപ്പ് തരംഗ രൂപമാണ് റഫറൻസ് തരംഗ രൂപം നീല തരംഗമാണ് ഔട്ട്പുട്ട് തരംഗരൂപം അത് റഫറൻസ് തരംഗരൂപം ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കാണുന്നു തീർച്ചയായും ട്രാക്കിംഗ് വളരെ നല്ലതല്ല നമുക്ക് PID പാരാമീറ്ററുകൾ ട്യൂൺ ചെയ്യേണ്ടി വന്നേക്കാം ചില നിയന്ത്രണങ്ങളുണ്ട് 5 മുതൽ 6 വോൾട്ട് വരെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതായി നിങ്ങൾ കാണുന്നു ഇപ്പോൾ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ അവസ്ഥ മാറ്റുക എന്നതാണ് ഞാൻ പോയി ഈ പാരാമീറ്ററുകൾ ക്രമീകരിക്കും ഇപ്പോൾ Ki എന്നത് ഇന്റഗ്രൽ ആണ് സ്ഥിരാങ്കം Kp ആണ് പ്രൊപ്പോഷണൽ കോൺസ്റ്റന്റ് പ്രൊപ്പോഷണൽ കോൺസ്റ്റന്റ്സിനെ വലിയ മൂല്യത്തിലേക്ക് മാറ്റാൻ അനുവദിക്കുക അങ്ങനെ ഡൈനാമിക്സ് മെച്ചപ്പെടും ഇപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഘട്ടം ഘട്ടമായി ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഞാൻ ഇത് ഒരു വലിയ ഘട്ടത്തിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം ലാഭിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഈ പാരാമീറ്ററുകൾ ഉപയോഗിച്ച് കളിക്കാം ഇപ്പോൾ ഞാൻ ഇത് സേവ് ചെയ്യട്ടെ തുടർന്ന് നമുക്ക് തിരികെ പോയി നെറ്റ് ലിസ്റ്റ് സൃഷ്ടിക്കാം അതിലൂടെ ngSpice എൻവയണ്മെന്റിലേക്കു പോയി ഈ ക്രമീകരണങ്ങൾ ചെയ്യാൻ എന്നെ അനുവദിക്കുക Vr Vo എന്നീ തരംഗ രൂപങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും ചലനാത്മകത മികച്ചതാണെന്നും ട്രാക്കുചെയ്യുന്നതിൽ തരംഗരൂപം കൂടുതൽ അടുത്താണെന്ന് നിങ്ങൾ കാണുന്നു അടിസ്ഥാനപരമായി നിങ്ങൾ Kp തിരഞ്ഞെടുക്കുന്നതിലൂടെ ചലനാത്മക പ്രതികരണം മെച്ചപ്പെടുത്തിയിരിക്കുന്നു തീർച്ചയായും എല്ലാ വ്യത്യസ്ത പാരാമീറ്ററുകളും ബക്ക് കൺവെർട്ടർ L C എന്നിവയുടെ പാരാമീറ്ററുകളും ഉപയോഗിച്ച് അവസാനം വരെ ശ്രമിക്കൂ ഈ പൾസ് പഠനത്തിന്റെ ഈ ആവശ്യത്തിന് മാത്രമുള്ളതാണ് അതിനാൽ ഔട്ട്പുട്ട് ഇൻപുട്ട് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും ഔട്ട്പുട്ട് ആവശ്യമുള്ള മൂല്യത്തിലേക്ക് വരുന്നതും ചില സ്വാധീനങ്ങളുണ്ടെന്ന് നിങ്ങൾ കാണും പ്രായോഗികമായി ഇത് സ്ഥിരമായിരിക്കും നിങ്ങൾക്ക് 5 വോൾട്ട് ഔട്ട്പുട്ട് നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സെറ്റ് പോയിന്റ് 5 വോൾട്ട് മാത്രമായിരിക്കും അത് സെറ്റ് പോയിന്റ് 5 വോൾട്ടിൽ എത്തുകയും ഈ ജിഗ്ലി വിഗ്ലി തരംഗ രൂപങ്ങളില്ലാതെ ഇവിടെ തുടരുകയും ചെയ്യും അതിനാൽ ഇത് ബക്ക് കൺവെർട്ടർ ഔട്ട്പുട്ട് നിയന്ത്രിക്കാനാകുമെന്ന് കാണിക്കാൻ മാത്രമാണ് അതിനാൽ ഞങ്ങൾ കണ്ടതും ഞങ്ങൾ മുമ്പ് ചർച്ച ചെയ്തതുമായ ക്ലോസ്ഡ് ലൂപ്പ് ബക്ക് കൺവെർട്ടർ സിസ്റ്റമാണിത് കണ്ട്രോൾ സ്ട്രക്ച്ചറിൽ ഒരു ചെറിയ മെച്ചപ്പെടുത്തൽ നിർദ്ദേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുവഴി കൺട്രോളറിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാനാകും നിലവിൽ ഇത്തരത്തിലുള്ള ടോപ്പോളജിയിൽ ഈ കൺട്രോളർ Vo യുടെ മുഴുവൻ സ്വിംഗും കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ കാണും ഉദാഹരണത്തിന് ഞങ്ങൾ പരിഗണിക്കുമ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഇടം ഉണ്ടാക്കട്ടെ ഒരു ആക്സിസും ഇതുപോലെയുള്ള മറ്റൊരു ആക്സിസും ഉണ്ടാവട്ടെ ഇവിടെ ഇത് Vo ആക്സിസ് ആണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ അർത്ഥത്തിൽ വിശദീകരിക്കാം നമുക്ക് Vc അല്ലെങ്കിൽ ചില ഫംഗ്ഷൻ പറയാം ഞാൻ ഇവിടെ കുറച്ച് ഫംഗ്ഷൻ ഇട്ടു ഫംഗ്ഷൻ എന്താണെന്ന് വിശദീകരിക്കാം ഇപ്പോൾ ഞാൻ ഇത് Vo വേഴ്സസ് f പോലെ എടുക്കാം ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇവിടെ എവിടെയോ ഉണ്ടെന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഇത് Vo ആണ് ഇത് f ആണ് കൺട്രോളർ വോൾട്ടേജിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന Vc യെ പ്രതിനിധീകരിക്കാൻ ഈ f ന് കഴിയും അതിനാൽ ഇത് ഈ ഘട്ടത്തിൽ ഹോവർ ചെയ്യുന്നു നിങ്ങൾ f ന്റെ എററിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ എററിനെ പ്രതിനിധീകരിക്കാൻ f ന് കഴിയും കൂടാതെ Vo യും Vc യും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് പറയാം അതിനാൽ Vo യും f ഉം f ഒരു പൊതു സന്തുലിതാവസ്ഥയാണ് ഇപ്പോൾ Vo ഒരു കോൺസ്റ്റന്റല്ല യഥാർത്ഥത്തിൽ Vo ഞാൻ അത് ഇവിടെ എഴുതാം Vo എന്നത് രണ്ട് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു ഒന്ന് ഓപ്പറേറ്റിംഗ് പോയിന്റിനെ പ്രതിനിധീകരിക്കുന്ന സ്ഥിരമായ ഭാഗവും പിന്നെ ഒരു ചെറിയ സിഗ്നൽ ഭാഗവും ലോഡ് ഡിസ്റ്റർബെൻസ് ലോഡ് മാറ്റങ്ങൾ എന്നെല്ലാം വിളിക്കപ്പെടുന്ന വ്യതിയാനമാണിത് ഈ ചെറിയ Vo hat ആണ് സിസ്റ്റത്തെ ഓപ്പറേറ്റിംഗ് പോയിന്റ് Vo യിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നത് ഇതുപോലെ മറ്റൊരു എൻട്രി അവിടെ ഒരു ചെറിയ സോൺ ഉണ്ട് ഈ ചെറിയ സോണിനെ ഞാൻ Vo hat എന്ന് വിളിക്കും ഇപ്പോൾ ഇത് ഒരു വ്യതിയാനത്തിലേക്ക് നയിക്കുന്നു Re വേരിയന്റുകൾ കാണാൻ കഴിയും അതിനാൽ ഇത് f hat ആണെന്ന് ഞാൻ പറയും അതിനാൽ f എന്നത് ഓപ്പറേറ്റിംഗ് പോയിന്റും f hat ഉം ചേർന്നതാണ് നമ്മൾ സംസാരിക്കുന്നത് Vc യെക്കുറിച്ച് ആണെങ്കിൽ അതിൽ Vc ഉള്ള കൺട്രോൾ വോൾട്ടേജാണ് അത് ഓപ്പറേറ്റിംഗ് പോയിന്റ് മൂല്യവും ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ അടുത്തുള്ള വ്യതിയാനവും കൂട്ടുന്നതിന് തുല്യമാണ് ഇപ്പോൾ ഈ പ്രത്യേക ടോപ്പോളജിയിലാണ് പോയിന്റ് ഉള്ളത് നമ്മൾ ഇപ്പോൾ കാണുന്നത് കൺട്രോളർ 0 മുതൽ ഓപ്പറേറ്റിംഗ് പോയിന്റിലേക്കുള്ള വലിയ സിഗ്നലുകളുടെ സ്വിംഗും ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ അടുത്തുള്ള വ്യതിയാനങ്ങളും കൈകാര്യം ചെയ്യുന്നു അതേസമയം കൺട്രോളറിലൂടെ വളരെ ചെറിയ ഒരു വിഭാഗത്തെ ഏൽപ്പിക്കുന്നുവെങ്കിൽ ആ വിഭാഗം മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക വ്യതിയാനങ്ങളും ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ അയൽപക്കവും ആണെങ്കിൽ കൺട്രോളറിലെ സ്ട്രെസും സ്ട്രെയിനും കുറവായിരിക്കും മാത്രമല്ല കൺട്രോളറിന്റെ പ്രവർത്തനം വേഗത്തിലാക്കാനും കഴിയും അതിനാൽ നിങ്ങൾക്ക് സ്ഥിരതയുള്ള ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് ഉണ്ട് ഒരു ഫീഡ് ഫോർവേഡ് ഘടകമായി സ്ഥിരതയുള്ള ഓപ്പറേറ്റിംഗ് പോയിന്റ് പരിപാലിക്കാനും ഒരു കൺട്രോളറിന്റെ സഹായത്തോടെ സ്ഥിരതയുള്ള ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ സമീപ സ്ഥലത്തെ ഡിസ്റ്റർബെൻസസ് മാത്രം പരിപാലിക്കാനും കഴിയുമെന്ന് പറയാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൺട്രോളർ വളരെ ലളിതമായിരിക്കും കൂടാതെ ഇതിന് കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരിക്കുകയും മികച്ച ചലനാത്മകത ഉണ്ടായിരിക്കുകയും ചെയ്യും അതിനാൽ അത്തരമൊരു കൺട്രോളർ എങ്ങനെ നടപ്പിലാക്കും പൊതുവേ അത് മെച്ചപ്പെട്ട നിയന്ത്രണ പ്രവർത്തനത്തിലേക്ക് നയിക്കും കുറച്ച് സമയത്തിനുള്ളിൽ ഇത് വീണ്ടും വരച്ച് അത് എങ്ങനെ നടപ്പിലാക്കാമെന്ന് ഞാൻ കാണിച്ചുതരാം നമുക്കറിയാവുന്ന കൺട്രോളർ ഇതാണ് ഒന്നാമതായി ഞാൻ ഇവിടെ കുറച്ച് ഇടമുണ്ടാക്കാൻ ശ്രമിക്കും ഈ ഭാഗം എന്നെ PWM ലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്നു അതിനാൽ ഞാൻ ഈ ഭാഗം ഇവിടെ മായ്ക്കും ഇപ്പോൾ ഓപ്പൺ ലൂപ്പ് കേസിനെക്കുറിച്ച് ചിന്തിക്കുക ഇപ്പോൾ ഞാൻ വ്യത്യാസങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന ഭാഗങ്ങൾ കാണിക്കാൻ നീല നിറം ഉപയോഗിക്കാൻ പോകുന്നു ഇപ്പോൾ ഓപ്പൺ ലൂപ്പ് കേസിന്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ചു എന്ന് പറയട്ടെ ഇത് ഏകദേശം 0 വോൾട്ട് അല്ലെങ്കിൽ മൈനസ് 0 1 വോൾട്ട് ആണെന്ന് പറയാം അതിനാൽ നിങ്ങൾക്ക് ഡ്യൂട്ടി സൈക്കിളിന്റെ 40 ശതമാനം ലഭിക്കും ഇപ്പോൾ ഇത് ഓപ്പൺ ലൂപ്പ് സ്ഥിരമായ ഫിക്സഡ് ഡ്യൂട്ടി സൈക്കിൾ തരത്തിൽ ഒരു ഡ്രൈവ് നൽകുന്നു കൺവെർട്ടറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്പെസിഫിക്കേഷൻ അറിയാമെന്ന് ഇപ്പോൾ പറയാം കൺവെർട്ടറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്പെസിഫിക്കേഷൻ ഇപ്പോൾ ഒരാൾക്ക് അറിയേണ്ടതുണ്ട് ഇൻപുട്ട് വോൾട്ടേജ് നോമിനൽ മൂല്യവും നിങ്ങൾക്ക് നിയന്ത്രിക്കേണ്ട ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണെന്നും നിങ്ങൾക്കറിയാം അതിനാലാണ് നിങ്ങൾ ഇവിടെ റഫറൻസ് സജ്ജമാക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻപുട്ട് വോൾട്ടേജ് നോമിനൽ മൂല്യം എന്താണെന്ന് ഔട്ട്പുട്ട് വോൾട്ടേജിനു അറിയാം അതിനാൽ നോമിനൽ ഡ്യൂട്ടി സൈക്കിൾ VoVin നോമിനൽ ആയിരിക്കും ഞാൻ പറഞ്ഞാൽ ഡ്യൂട്ടി സൈക്കിൾ d രണ്ട് ഭാഗങ്ങൾ d പ്ലസ് d hat ഘടകങ്ങളോട് ചേർന്നതാണ് ഇപ്പോൾ d എന്നത് Vo Vin നോമിനൽ മൂല്യത്തിൽ നിന്നാണ് വരുന്നത് ഓപ്പറേറ്റിംഗ് പോയിന്റിലെ ഡ്യൂട്ടി സൈക്കിളിന്റെ മൂല്യം ഈ d നിങ്ങൾക്ക് നൽകും വളരെ അനിശ്ചിതത്വങ്ങൾ ഇൻപുട്ട് വോൾട്ടേജിലെ ലോഡിലെ മാറ്റങ്ങൾ താപനില തുടങ്ങിയ കാരണങ്ങളാൽ ഡ്യൂട്ടി സൈക്കിളിന്റെ വ്യതിയാനമാണ് V hat നമുക്ക് ഇവിടെ ഈ VDC മൂല്യം നോമിനൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഡ്യൂട്ടി സൈക്കിളുമായി പൊരുത്തപ്പെടുന്ന വോൾട്ടേജ് മൂല്യമായി സജ്ജമാക്കാം അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന Vc d യുമായി പൊരുത്തപ്പെടുന്നു അങ്ങനെയെങ്കിൽ ഞാൻ ഇവ രണ്ടും ചേർത്താൽ എനിക്ക് d d അത് ട്രാൻസിസ്റ്റർ പ്രതീക്ഷിക്കുന്ന d ആണ് അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് അതാണ് അതിനാൽ ഞാൻ ഇനിപ്പറയുന്ന മാറ്റം ഇവിടെ ചെയ്യും ഞാൻ ഒരു സമ്മർ അവതരിപ്പിക്കും അത് പ്ലസ് ആണ് അതും പ്ലസ് എന്ന് നമുക്ക് പറയാം ഈ പ്ലസ് എന്നതിലേക്ക് ഞാൻ ഒരു ചെറിയ വോൾട്ടേജ് സ്രോതസ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരത നൽകുന്ന മറ്റെന്തെങ്കിലും അവതരിപ്പിക്കുന്നു അതിനോട് നോമിനൽ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ പ്രതിനിധീകരിക്കുന്ന VDC കൊടുക്കുന്നു ഇതിൽ നിന്ന് വരുന്ന ഒരു വോൾട്ടേജ് ഔട്ട്പുട്ട് PWM മോഡുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതിനോട് യോജിക്കും ഞാൻ ഇത് ഉപയോഗിക്കുന്നു d പ്ലസ് d hat മായി യോജിക്കുന്ന വോൾട്ടേജ് ആണ് ഇത് ഇപ്പോൾ ഇതാണ് PWM നുള്ളിൽ ത്രികോണത്തെ മോഡുലേറ്റ് ചെയ്യുകയും ഡാറ്റ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഈ പദത്തെ ഫീഡ് ഫോർവേഡ് ടേം എന്ന് വിളിക്കുന്നു അതിനാൽ കണ്ട്രോൾ ലിറ്ററേച്ചറിൽ ഇതിനെ ഫീഡ് ഫോർവേഡ് ടേം എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഒരു കൺട്രോളർ എന്താണ് ചെയ്യുന്നത് കൺട്രോളറുടെ ജോലി ലളിതമാക്കിയിരിക്കുന്നു അതിനാൽ സാധാരണ ഓപ്പറേറ്റിംഗ് പോയിന്റിന് കീഴിലോ അല്ലെങ്കിൽ സാധാരണ പ്രവർത്തനത്തിന് കീഴിലോ ഡിസ്റ്റർബെൻസ് ഇല്ലാതിരിക്കുമ്പോൾ ഇവിടെ ഫിക്സ് അപ്പ് ഫീഡ് ഫോർവേഡ് ടേം മൂല്യം d നിർവചിക്കുന്നു തുടർന്ന് ഉചിതമായ ഡ്യൂട്ടി സൈക്കിൾ നൽകുകയും ഇത് ഔട്ട്പുട്ട് നൽകുകയും ചെയ്യുന്നു ഇപ്പോൾ ഔട്ട്പുട്ട് 5 വോൾട്ട് അല്ല എന്ന് കരുതുക അത് പല കാരണങ്ങളാൽ 5 വോൾട്ടിൽ നിന്ന് വ്യതിചലിച്ചു അത് ഊഷ്മാവ് മൂലമാകാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻപുട്ട് ഏറ്റക്കുറച്ചിലുകൾ മൂലമാകാം അത് ഔട്ട്പുട്ട് ലോഡിംഗും ഈ കാരണങ്ങളിൽ പലതും ആകാം ഔട്ട്പുട്ട് വ്യതിചലിച്ചുവെന്ന് നമുക്ക് പറയാം ഇപ്പോൾ വ്യതിചലിച്ച മൂല്യം ഇവിടെ വന്നിരിക്കുന്നു ഇവ സമ്മർ ഡിഫറൻസ് കംപറേറ്റർ ഫയലുകളിൽ നിങ്ങൾ അടിക്കും ഇവ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു എറർ ഉണ്ട് എറർ ഒരു കൺട്രോൾ വോൾട്ടേജിന്റെ ചെറിയ മൂല്യം നൽകും അത് d hat ന് സമാനമാണ് വോൾടേജ് d dd ന് തുല്യമായിരിക്കും അവ ഉചിതമായ രീതിയിൽ നിയന്ത്രണ നടപടി സ്വീകരിക്കുന്നു സ്ഥിരമായ അവസ്ഥയിൽ എല്ലാം ശരിയായിരിക്കുമ്പോൾ ഔട്ട്പുട്ട് നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ ഈ ഔട്ട്പുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ എറർ 0 ആയിരിക്കും ഈ കൺട്രോളർ ഇവിടെയുള്ള നോമിനൽ ഓപ്പറേറ്റിംഗ് പോയിന്റിലെ വ്യതിയാനങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നു അതിനാൽ ഈ കൺട്രോളർ വേഗതയേറിയതും മറ്റുള്ളവയിൽ വച്ച് സ്ട്രെയിൻ കുറവും ആയിരിക്കും അതിനാൽ ഈ കൺട്രോൾ ടോപ്പോളജി മെച്ചപ്പെടുത്തുന്നതിനായി ഇപ്പോൾ അവതരിപ്പിച്ച ആശയമാണിത് ഇത് സിമുലേഷനിലും കാണും ഇത് എങ്ങനെ സംയോജിപ്പിച്ചിരിക്കുന്നു അത് നിങ്ങൾക്ക് മികച്ച പ്രതികരണങ്ങളുള്ള ഒരു മറ്റൊരു കൺട്രോളർ നൽകും ഈ പരിഷ്കരിച്ച കൺട്രോളറിന്റെ സിമുലേഷൻ നോക്കാം എനിക്ക് ഇവിടെ അതേ ബക്ക് ക്ലോസ്ഡ് സർക്യൂട്ട് ഉണ്ട് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്ത അനുബന്ധ പരിഷ്ക്കരണം ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ നിങ്ങൾ അത് കാണുന്നു തീർച്ചയായും ഇവ അതേ ബക്ക് കൺവെർട്ടർ സർക്യൂട്ട് ആണ് ഇവിടെ PWM ബ്ലോക്ക് ഉണ്ട് അത് നിങ്ങൾക്ക് ഉചിതമായ ഡ്യൂട്ടി സൈക്കിൾ നൽകുന്നു ഈ ഭാഗത്ത് നിങ്ങൾക്ക് ആ റഫറൻസ് ഉണ്ട് തുടർന്ന് ഈ O ലേബലിൽ നിന്ന് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് വരുന്നു ഓ ലേബൽ ഇവിടെ ഉണ്ട് ഈ പോയിന്റ് ഇതാണ് എറർ PID കൺട്രോളറിലേക്ക് പിശക് കടന്നുപോകുന്നു കൂടാതെ PID കൺട്രോളറിന്റെ ഔട്ട്പുട്ട് ഹാറ്റുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി സൈക്കിൾ വോൾട്ടേജിലെ വ്യതിയാനവുമായി പൊരുത്തപ്പെടുന്നു ഇപ്പോൾ ഇവിടെ ഹാറ്റ് ലാഡ്ഡറിന്റെ മറ്റൊരു ടെർമിനലിൽ നിങ്ങൾക്ക് DC വോൾട്ടേജ് ഉണ്ട് ഇവിടെ ഞാൻ 45 ശതമാനം ഡ്യൂട്ടി അനുപാതത്തിന് മൈനസ് 0 05 നൽകുന്നു അതിനാൽ ഇത് ഒരു ഫീഡ് ഫോർവേഡ് ടേം ആയി ഞാൻ നൽകുന്ന നോമിനൽ മൂല്യമോ ഓപ്പറേറ്റിംഗ് പോയിന്റ് മൂല്യമോ ആണ് കൂടാതെ ഇത് ഈ കൺട്രോൾ വോൾട്ടേജും ആയിരിക്കും ഇത് അനാവശ്യ കാരണങ്ങളാൽ വരുന്ന വ്യതിയാനങ്ങളുള്ള d പ്ലസ് d ഹാറ്റ് ആണ് കൺട്രോളറിൽ നിന്ന് വരുന്നത് PWM ലേക്ക് പോയി സ്വിച്ച് നിയന്ത്രിക്കുന്നു ഇവിടെ ഈ ഫീഡ് ഫോർവേഡ് ടേം നടത്തിയത് ഇങ്ങനെയാണ് അതിനാൽ ഇത് സിമുലേറ്റ് ചെയ്യാനും പിന്നീട് ഇത് കാണിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു ഇതിന് കൂടുതൽ സമയമെടുക്കില്ല മറ്റ് ബക്ക് ക്ലോസ് സർക്യൂട്ടിന്റെ സിമുലേഷൻ സമയത്ത് ഞാൻ അവസാനമായി ഇട്ട നമ്പറുകൾ ഞാൻ തിരികെ നൽകും അതുകൊണ്ട് ഞാനിവിടെ പറയട്ടെ ഇപ്പോൾ ഞാൻ PID ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു പുതിയ ബ്ലോക്കാണ് x hat എന്ന് തിരിച്ചറിയുക x hat A ബ്ലോക്കിലും ലഭ്യമാണ് ഇതാണ് ഹാറ്റ് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ഇതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന തുക ഇത് സേവ് ചെയ്തു നമുക്ക് ഇവിടെയുള്ള ഫോൾഡറിലേക്ക് പോകാം ഇപ്പോൾ ഇവിടെ ബക്ക് ക്ലോസ് ഡോട്ട് സിറും edt 01 sub edt 01 ഡോട്ട് സബിനുള്ളിൽ എന്താണ് ഉള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല ഞാൻ ഇവിടെ ചില കാര്യങ്ങൾ ചേർത്തിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഇവിടെ t ചേർത്തിട്ടുണ്ട് d ഒരു സബ് സർക്യൂട്ട് ആണ് ഇത് വീണ്ടും എല്ലാ അനലോഗ് ബിഹേവിയറൽ മൊഡ്യൂൾ ഘടകങ്ങളും ചേർന്നതാണ് ഇവ ngSpice മാനുവലിൽ നന്നായി നിർവചിച്ചിരിക്കുന്നു എന്നിട്ട് ഞാൻ ഒരു സമ്മർ ഉണ്ടാക്കി അതും അനലോഗ് ബിഹേവിയറൽ മോഡൽ വഴിയാണ് ഞാൻ ഇവിടെ ഒരു ലാഡ്ഡർ ഉണ്ടാക്കി അതും ngSpice അനലോഗ് ബിഹേവിയർ മോഡൽ ആണ് ഞാൻ ഇവിടെ ഒരു ഗുണിതവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ തീർച്ചയായും ഇത് എവിടെയും ഉപയോഗിക്കുന്നില്ല അത് നിങ്ങളുടെ റഫറൻസിനായി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് നടപ്പിലാക്കുക ഇനി നമുക്ക് ടെർമിനലിലേക്ക് പോകാം എനിക്ക് ഡയറക്ടറിയിലേക്കും പോകാം C യും d യും ഡയറക്ടറിയിലേക്ക് നെറ്റ് ലിസ്റ്റ് സൃഷ്ടിക്കാനും ഇവിടെ സൃഷ്ടിച്ച നെറ്റ് ലിസ്റ്റ് എങ്ങനെ സൃഷ്ടിക്കുന്നുവെന്നും നിങ്ങൾ കാണുകയും ngസ്പൈസ് ബക്ക് ക്ലോസ് അഥവാ cir ആകാം ഇപ്പോൾ നിങ്ങൾ ഈ ഭാഗം എൻവയണ്മെന്റാണ് നിങ്ങൾ പ്രോഗ്രാം റൺ ചെയ്യുക ഇപ്പോൾ പശ്ചാത്തല നിറം വെളുപ്പാക്കി മാറ്റുകയും തറയുടെ ഗ്രൌണ്ട് കളർ കറുപ്പ് ആക്കുകയും ചെയ്യട്ടെ ഇപ്പോൾ ഞാൻ സാധാരണ പോലെ റഫറൻസും ഔട്ട്പുട്ടും പ്ലോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ കാണുന്നത് ശരിയാണ് ഇത് നിങ്ങൾക്ക് സമാനമായ പ്രകടന അളവുകളും നൽകുന്നു ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നും സ്വിച്ചിന് നൽകിയ ഗേറ്റ് പൾസുകൾ എന്താണെന്നും നിങ്ങൾ കാണും ഡാറ്റാ സിഗ്നലുകൾ നൽകുന്ന പ്ലോട്ട് നിങ്ങൾ ഒരുപക്ഷേ കാണാനിടയുണ്ട് അതിനാൽ നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ തുടർച്ചയായി വ്യത്യാസപ്പെടുന്ന ഗേറ്റ് പൾസ് ഇതായിരിക്കും കൂടാതെ Vo യ്ക്കൊപ്പം ഇൻഡക്ടർ കറന്റ് IL ഉം പ്ലോട്ട് ചെയ്തിരിക്കുന്നത് കാണാം അതിനാൽ Vo ഇനി സ്ഥിരമല്ലാത്തതിനാൽ ഇൻഡക്റ്റ് കറന്റിനും ധാരാളം വ്യതിയാനങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു പക്ഷേ ഈ സമയ പരിധിയിൽ അത് സ്ഥിരമായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ ആംപ്ലിറ്റ്യൂഡ് വർദ്ധിപ്പിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആകും സ്ഥിരമായിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതാണ് അതിനാൽ നിങ്ങൾ തരംഗ രൂപങ്ങളും മൂല്യങ്ങളും ഉപയോഗിച്ച് കളിക്കുന്നു കൂടാതെ ഈ മുഴുവൻ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ ഒരു പോർട്ടിൽ ശ്രമിക്കുക